'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന NPTEL കോഴ്സിലെ നാലാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ച്ചറിൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെ ഞാൻ ഫേർമ് ഗ്രൌണ്ട് എന്നൊരു പ്രയോഗത്താൽ അഭിസംബോധന ചെയ്തിരുന്നു കോശങ്ങൾക്ക് നിയതമായ ആകൃതി പ്രധാനം ചെയ്യുന്ന ഒരു ഘടകമാണിത് ഈ കാണുന്നത് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങൾ സ്രവിക്കുന്ന മെട്രിക്സിന്റെ ഘടനയാണ് ഇതിൽ നമുക്ക് വിവിധയിനം ECM പ്രോട്ടീനുകൾ കാണാവുന്നതാണ് സ്വാഭാവികമായും അവയ്ക്കെല്ലാം വിഭിന്നങ്ങളായ സ്വഭാവ സവിശേഷതകളും ഉണ്ടായിരിക്കും മാത്രമല്ല മെട്രിക്സിന്റെ അഭാവമുള്ള മേഖലകളും ഇതിനുള്ളിൽ നിലവിലുണ്ട് ഇവയിൽ തുല്യാകൃതിയില്ലാത്ത ധാരാളം സുഷിരങ്ങളും നമുക്ക് കാണാനാകും ഇവയ്ക്കെല്ലാം പുറമെ വിവിധ ദിശകളിലേക്ക് വിന്യസിക്കുന്ന മെട്രിക്സ് ഫൈബറുകളുടെ സാന്നിധ്യവും ഇവിടെ സദൃശ്യമാണ് മേല്പറഞ്ഞ മെട്രിക്സുകളുടെ ആംഗിൾ ഓഫ് ഓറിയന്റേഷന്റെ ശരാശരി നിരക്ക് നമുക്കൊന്ന് അളന്ന് തിട്ടപ്പെടുത്തി നോക്കാം ഈ കാണുന്ന മേഖലയിലെ പച്ച നിറത്തിലുള്ള സിഗ്നലുകൾ യഥാർത്ഥത്തിൽ മെട്രിക്സിലുള്ള പ്രോട്ടീനുകളുടെ തോതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് മെട്രിക്സിന്റെ ശരാശരി സാന്ദ്രതയ്ക്ക് ആനുപാതികമാണ് മേല്പറഞ്ഞ ഘടങ്ങളെല്ലാം കോശങ്ങളുടെ പ്രകൃതത്തിനെ ഗണ്യമായി സ്വാധീനിക്കുന്നവയാണ് ECM മുഖേന കോശങ്ങൾക്ക് ലഭ്യമാകുന്ന മുഴുവൻ സൂചനകളെയും നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് കെമിക്കൽ ക്യൂസ് ആണെങ്കിൽ മറ്റൊന്ന് ഫിസിക്കൽ ക്യൂസാണ് കഴിഞ്ഞ ലെക്ച്ചറിൽ ടോപ്പോഗ്രാഫിയുടെ പ്രഭാവത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തിരുന്നത് ഈ കാണുന്ന ECM ഫൈബറുകളുടെ ആപേക്ഷികമായ അഭിവിന്യാസത്തിനെയാണ് ഓറിയെന്റേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിട്ടയായ രീതിയിൽ വിന്യസിക്കാത്ത ഒരു നോൺ അലൈൻഡ് മെട്രിക്സിന് മേൽ ചലിക്കുന്ന ഒരു കോശമാണിത് കൃത്യമായ ദിശാസൂചനകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ അവ സ്വാഭാവികമായും റാൻഡം മൈഗ്രേഷൻ കാഴ്ച്ചവെക്കാനുള്ള സാധ്യത ഏറെയാണ് ഇതിൽ നിന്നും വിഭിന്നമായി ഈ കാണുന്ന മെട്രിക്സിലെ ഫൈബറുകൾ കോശങ്ങൾക്ക് നിയതമായ ദിശാസൂചനകൾ പ്രധാനം ചെയ്യുകയും അവ അതിനാധാരമായി ഈ കാണുന്ന പ്രത്യേക രേഖ അടിസ്ഥാനപ്പെടുത്തി ചലിക്കുകയും ചെയ്യുന്നു ഗണിതശാസ്ത്രപരമായി ഇതിനെ എങ്ങനെ തിട്ടപ്പെടുത്താമെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ഈ കാണുന്നത് ഒരു റാൻഡം ട്രജക്ടറിയാണെങ്കിൽ ഇത് അല്പം കൂടി പെർസിസ്റ്റന്റ് ആയ ഒരു സഞ്ചാരപഥമാണ് ഗണിതശാസ്ത്രപരമായി ഇതിനെ എങ്ങനെ തിട്ടപ്പെടുത്താമെന്ന ചോദ്യം നാം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് എൻഡ് പോയിന്റുകൾ ആധാരമാക്കിയുള്ള രീതിയാണ് ഒരു മാർഗ്ഗം ഈ കാണുന്ന ആരംഭ ബിന്ദുവിനെ A എന്നും അവസാന പോയിന്റിനെ B യായും നമുക്ക് കണക്കാക്കാം എന്നത് പോലെ ഈ കാണുന്ന സഞ്ചാരപഥത്തിന്റെ ആരംഭ ബിന്ദു A യും ഒടുക്കത്തിലെ പോയിന്റ് B യുമാണ് ഇപ്രകാരം മേല്കാണുന്ന സഞ്ചാരപഥത്തിനെ എൻഡ് പോയിന്റുകൾ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വിഭജിക്കാവുന്നതാണ് കോൺടൂർ ലെങ്ത്തിന്റെ നിരക്കിലാണ് നാം എൻഡ് ടു എൻഡ് ദൂരത്തിനെ തരംതിരിക്കുന്നത് ഇപ്രകാരം എൻഡ് ടു എൻഡ് ദൂരവും കോൺടൂർ ലെങ്ത്തും തമ്മിലുള്ള അനുപാതം നമുക്ക് കണ്ടെത്താവുന്നതാണ് മേല്കാണുന്ന സാഹചര്യത്തിൽ ടോട്ടൽ ദൂരം അഥവാ കോൺടൂർ ലെങ്ത്തിനെ എൻഡ് ടു എൻഡ് ദൂരവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവയുടെ നിരക്ക് വളരെ കൂടുതലായിരിക്കും ആയതിനാൽ പെർസിസ്റ്റൻസിന്റെ മൂല്യം കണക്കാക്കാൻ ഇപ്പോൾ കണ്ടെത്തിയ ഈ കാണുന്ന P എന്ന അനുപാതം ഉപയോഗപ്പെടുത്താവുന്നതാണ് റാൻഡം ട്രജക്ടറിയുടെ കാര്യത്തിൽ നമുക്ക് P യുടെ മൂല്യം 0 2 എന്നും എന്നാൽ പെർസിസ്റ്റന്റ് ട്രജക്ടറിയിൽ P യുടെ നിരക്ക് 0 95 എന്നും ലഭ്യമാകുന്നു അതായത് റാൻഡം മൈഗ്രേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ P യുടെ മൂല്യം പെർസിസ്റ്റൻറ് മൈഗ്രേഷന്റെ സാഹചര്യത്തിൽ ഗണ്യമായ വർദ്ധനവ് കാണിക്കുന്നുണ്ട് മേല്പറഞ്ഞ ട്രജക്ടറിയുടെ പരമാവധി സാധ്യമായ ആകൃതിയെന്നത് ഒരു പൂർണമായ നേർരേഖയാണ് ആയതിനാൽ P യുടെ സാധ്യമായ ഏറ്റവും ഉയർന്ന തുക എന്നത് ഒന്നാണ് മേൽ സൂചിപ്പിച്ച സന്ദർഭത്തിൽ കോൺടൂർ ലെങ്ത്ത് എന്നത് എൻഡ് ടു എൻഡ് ദൂരത്തിന് സമാനമാകുന്നു നമ്മൾ നിർവചിച്ച അനുപാതം പൂജ്യത്തിനും ഒന്നിനും മധ്യേയുളള ഒരു തുകയാണ് മേല്പറഞ്ഞത് പെർസിസ്റ്റൻസിന്റെ മൂല്യം കണ്ടെത്താനുള്ള ഏറ്റവും ലളിതമായ മാർഗ്ഗമാണ് അടുത്തതായി നമുക്ക് ഈ കാണുന്ന ട്രജക്ടറിയെ പല വ്യക്തിഗത ഖണ്ഡങ്ങളായി വിഭജിക്കാം ആയതിനാൽ ഇനി നമുക്കിതിനെ ഒന്ന് പുനഃചിത്രീകരിക്കാം ഉദാഹരണത്തിന് ഈ കാണുന്നത് ഒരു കോശത്തിന്റെ സഞ്ചാരപഥമാണ് ഈ പാതയെ ഞാൻ ഹ്രസ്വമായ ഖണ്ഡങ്ങളായി വിഭജിക്കുകയാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുവാനായി ഞാൻ ഈ ചുവന്ന നിറത്തിലുള്ള മഷി ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈ ചുവന്ന നിറത്തിലുള്ള വരകൾ മേല്പറഞ്ഞ സഞ്ചാരപാതയുടെ ഹ്രസ്വമായ വിഭജനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ സഞ്ചാരപഥത്തിനെ മുഴുനീളെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു കഴിഞ്ഞു ഇനി ഏതെങ്കിലും രണ്ട് വരകൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ കാണുന്ന രണ്ട് വരകൾ തന്നെയെടുക്കാം ഇവ d ദൂരത്തിൽ അകന്ന് നിൽക്കുന്നതായും ഇവയ്ക്കിടയിലുള്ള ആംഗിളിനെ തീറ്റയായും Thetaθ നമുക്ക് കണക്കാക്കാം ഇവിടെ കാണുന്ന ഒട്ടുമിക്ക ട്രജക്ടറികൾക്കിടയിലുള്ള ആംഗിളും തീറ്റ തന്നെയായിരിക്കും എന്നതാണ് വാസ്തവം അങ്ങനെയെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന സമവാക്യമെന്നത് cosθ e LP അഥവാ cosθ eLP എന്നതാണ് ഈ കാണുന്ന ബ്രാക്കറ്റിനെ ആവറേജ് ഓപ്പറേറ്റർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് രണ്ട് കോശങ്ങളുടെ സഞ്ചാരപഥങ്ങൾ തമ്മിലുള്ള ആംഗിൾ കണ്ടെത്തുന്നതിനായി നമുക്ക് ഈ സമവാക്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ രണ്ട് ട്രജക്ടറികൾക്കിടയിലുള്ള ദൈർഘ്യമെന്നത് L ആണല്ലോ ആയതിനാൽ ഇതിനെ നമുക്ക് L1 എന്നും ഇത് L2 എന്നും രേഖപെടുത്താവുന്നതാണ് ശേഷം നമുക്ക് ഇവയുടെ പെർസിസ്റ്റൻസ് P കണ്ടെത്താവുന്നതാണ് മേല്പറഞ്ഞ മാർഗ്ഗത്തിലൂടെ നമുക്ക് ഈ കാണുന്ന ഫൈബറുകളുടെ അഭിവിന്യാസത്തിനെ പറ്റി വ്യക്തമായ ധാരണ ലഭ്യമാകുന്നു ഇവിടെ പെർസിസ്റ്റൻസ് ലെങ്ത്ത് നിർണയിക്കുന്നതിൽ സ്പ്രിങിന്റെ സ്റ്റിഫ്നെസ്സ് എന്ന ഘടകവും ഗണ്യമായ നിരക്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ കാണുന്ന പേനയുടെ കാര്യം തന്നെ നോക്കൂ അതിന്റെ ഈ ഭാഗം നിവർന്നാണ് നിൽക്കുന്നത് അതായത് ഇത് ഏറെക്കുറെ ദൃഢമാണെന്ന് സാരം ഉദാഹരണത്തിന് നമുക്ക് സ്പാഗെറ്റിയുടെ കാര്യം തന്നെയെടുക്കാം പാകം ചെയ്യാത്ത ഒരു സ്പാഗെറ്റി എടുത്താൽ അത് നിവർന്ന് വടിപോലെ ദൃഢമായിരിക്കും എന്നാൽ അവ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ അവയുടെ ഘടനയിൽ ഏതാണ്ട് ഇതുപോലെ രൂപാന്തരം സംഭവിക്കുന്നു ആയതിനാൽ പെർസിസ്റ്റന്റ് ലെങ്ത്ത് എന്നത് ബെൻഡിങ് റിജിഡിറ്റിയോടുള്ള വഴക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നേരത്തെ നാം കണ്ടെത്തിയ പെർസിസ്റ്റൻസിന്റെ നിരക്കിനെ ആധാരമാക്കി നമുക്ക് ബെൻഡിങ് റിജിഡിറ്റി കണ്ടെത്താവുന്നതാണ് അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ കോശങ്ങളെ പ്ലേറ്റ് ചെയ്യുവാൻ പോകുകയാണ് അലൈൻഡ് മെട്രിക്സിനുമേൽ നിരത്തിയാൽ ഇവ മൈഗ്രേറ്റ് ചെയ്യുവാനുള്ള സാധ്യതയേറെയാണെന്ന് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഈ കാണുന്ന ചുവന്ന വരകൾ മെട്രിക്സിനെയാണ് രേഖപ്പെടുത്തുന്നത് ഒരു പ്രത്യേക ദിശയിലേക്ക് ഇവ വിശാലമായി വിന്യസിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പച്ച നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോശത്തിനെയാണ് കോശമാകട്ടെ ചിത്രത്തിൽ ദൃശ്യമാകുന്നത് പോലെ മെട്രിക്സ് പ്രതിനിധാനം ചെയ്യുന്ന അന്തർലീനമായ ടോപ്പോഗ്രാഫിയിൽ വിരാചിക്കുന്ന ഫൈബറുകൾക്ക് അനുസൃതമായാണ് വിന്യസിക്കുന്നത് ഒരു തടിക്കഷ്ണം മുറിക്കുമ്പോൾ പ്രയോഗിക്കുന്ന അതെ യുക്തി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെയും പ്രയോഗിക്കപ്പെടുന്നത് എല്ലാ ഫൈബറുകളും ഒരേ ദിശയിൽ അഭിവിന്യസിക്കുമ്പോൾ അനായാസം സഞ്ചാരം സാധ്യമാകുന്നു കോശങ്ങളുടെ സ്ഥാനചലനത്തിനെ ECM എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കോശങ്ങൾ തങ്ങൾക്കടിയിലുള്ള മെട്രിക്സിനെ ഡീഗ്രേഡ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഉടലെടുക്കാറുണ്ട് ഈ കാണുന്ന പരീക്ഷണത്തിൽ ക്യാൻസർ കോശങ്ങളെ ജലാറ്റിൻ കൊണ്ട് ലേപനം ചെയ്ത കൾച്ചർ ഡിഷുകളിൽ നമുക്ക് പ്ലേറ്റ് ചെയ്യാം ഇപ്പോൾ ഇവ ജലാറ്റിൻ കൊണ്ട് ഫ്ലൂറസെന്റ്ലി ലേബൽ ചെയ്യപ്പെട്ടവയാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു 2 D ചിത്രമാണ് മെട്രിക്സിന് മേൽ നിലയുറപ്പിച്ച F ആക്ടിനിനെ ലക്ഷ്യം വെച്ച് ഫ്ലൂറസെന്റ് ജലാറ്റിൻ കൊണ്ട് രേഖപ്പെടുത്തി പ്ലേറ്റ് ചെയ്ത കോശങ്ങളാണിത് എന്നാൽ ഈ കാണുന്ന കോശങ്ങൾക്ക് കീഴിൽ കറുത്ത പടലം പോലെ ചില സോണുകൾ വ്യക്തമാകുന്നുണ്ട് കോശങ്ങളുടെ സ്വമേധയാലുള്ള പ്രവർത്തനം മൂലം ജീർണ്ണാവസ്ഥയിൽ കഴിയുന്ന പ്രതലങ്ങളാണിവ കോൺഫോക്കൽ z സ്റ്റാക്ക് ചിത്രങ്ങളിൽ നിന്നും മേല്പറഞ്ഞ ജീർണ്ണതയുടെ തോത് വളരെ വ്യക്തമായി പ്രകടമാകുന്നുണ്ട് ഇവിടെ പച്ചനിറത്തിൽ കാണുന്നത് ജലാറ്റിന്റെ പാളിയാണ് കോശങ്ങൾ തന്നെ സ്രവിക്കുന്ന മെട്രിക്സ് മെറ്റാലോ പ്രോട്ടിനേസ് അഥവാ MMP യുടെ ഭാഗങ്ങളാണ് ഇവിടെ ചുവന്ന നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവ ജലാറ്റിനുമായി കോ ലോക്കലൈസ് ചെയ്താണ് കാണപ്പെടുന്നത് ആയതിനാൽ മേല്പറഞ്ഞ പച്ച സിഗ്നലുകളുടെ അഭാവമുള്ള ഇടങ്ങളിൽ നമുക്ക് ചുവന്ന കുത്തുകൾ കാണാൻ സാധിക്കും ഈ കാണുന്ന പ്രോട്ടിയേസുകളുടെ പ്രഭാവത്തിലാണ് മെട്രിക്സ് ദ്രവിക്കുന്നത് മേല്പറഞ്ഞ പ്രവർത്തിയിലൂടെ കോശങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി ഒന്ന് നോക്കാം സാധാരണഗതിയിൽ കോശങ്ങളെ നിരന്തരം പുനർനിർമ്മിക്കുവാനും ബന്ധപ്പെട്ടു കിടക്കുന്ന മെട്രിക്സിനെ പുനഃക്രമീകരിക്കുവാനും ഉതകുന്ന ഒരു പ്രക്രിയയാണ് ഡീഗ്രഡേഷൻ മാത്രമല്ല ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരിടത്തിലേക്ക് കാൻസർ കോശങ്ങളുടെ വ്യാപനത്തിന് നേതൃത്വം നൽകുന്നതിൽ ഇവ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട് വളരെ കൌതുകകരമായ ഒരു വസ്തുത എന്തെന്നാൽ MMP യുടെ സെക്രീഷനെ പ്രതലത്തിന്റെ പാസ്സീവ് സ്റ്റിഫ്നെസ്സ് ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ഇനി ഈ കാണുന്ന പരീക്ഷണത്തിൽ നമ്മൾ ക്യാൻസർ കോശങ്ങളെ മൃദുവായ പോളിയക്രിലമൈഡ് ഹൈഡ്രോജെൽ അല്ലെങ്കിൽ ദൃഢമായ പോളിയക്രിലമൈഡ് ഹൈഡ്രോജെൽ ഉപയോഗപ്പെടുത്തിയോ പ്ലേറ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന രണ്ട് സന്ദർഭങ്ങളിലും ജെല്ലുകളെ കോശങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന കൊളാജെൻ എന്ന ECM പ്രോട്ടീൻ ഉപയോഗിച്ച് നാം ലേപനം ചെയ്യുന്നുണ്ട് കണ്ടീഷൻറ് മീഡിയ ഉപയോഗപ്പെടുത്തി ജലാറ്റിൻ സയ്മോഗ്രഫി എന്നൊരു പരീക്ഷണം നടത്തുന്നതിലൂടെ നമുക്ക് ഡീഗ്രഡേഷന്റെ നിരക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും ഇവിടെ മേല്പറഞ്ഞ കണ്ടീഷൻറ് മീഡിയയെ ലയോഫിലൈസ് ചെയ്യുമ്പോൾ ശേഖരിക്കുന്ന പദാർത്ഥത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജലാറ്റിൻ കൊണ്ട് തന്നെ ലേപനം ചെയ്ത PAGE ൽ വെച്ച് വെസ്റ്റേൺ ബ്ലോട്ടിന് വിധേയമാക്കുന്നു കണ്ടീഷൻറ് മീഡിയയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ മേല്പറഞ്ഞ ജെല്ലിനുമേൽ വിഹരിക്കാൻ തുടങ്ങും ജെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നാം യഥാർത്ഥത്തിൽ ജലാറ്റിനെ ദ്രവിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് വെള്ള നിറത്തിലുള്ള ഏതാനും ചില ബാൻഡുകൾ ലഭ്യമാകുന്നു ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 91 കിലോ ഡാൽട്ടൻ വരുന്ന MMP 9 നെ സൂചിപ്പിക്കുന്ന രണ്ട് ബാൻഡുകളും MMP 2 വിനെ പ്രതിനിധീകരിക്കുന്ന 71 കിലോ ഡാൽട്ടന്റെ ഒരു ചെറിയ ബാൻഡും നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് സന്ദർഭങ്ങളിൽ നിന്നും MMP യുടെ പ്രവർത്തനം സ്റ്റിഫ്നെസ്സിനെ ഗണ്യമായി ആശ്രയിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നു അതായത് കോശങ്ങൾക്ക് മെട്രിക്സിന്റെ സ്വഭാവ സവിശേഷതകൾ മാത്രമല്ല മറിച്ച് സ്റ്റിഫ്നെസ്സിന്റെ നിരക്കിനെ പറ്റിയും കൃത്യമായ ധാരണയുണ്ട് എന്ന് സാരം നേരത്തെ സൂചിപ്പിച്ച ആക്ടിവിറ്റി എസ്സെയിലൂടെ സ്റ്റിഫ്നെസ്സ് എന്ന ഘടകം MMP യുടെ സെക്രീഷന്റെ നിരക്കിനെ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നമുക്കിതിലൂടെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു ഞാൻ ഇവിടെ ഉപയോഗിച്ച മറ്റൊരു പദം റീമോഡലിങ് അഥവാ പുനർനിർമ്മാണം എന്നതാണ് മേൽസൂചിപ്പിച്ച പരീക്ഷണങ്ങളിൽ പ്രകടമായത് പോലെ ഫൈബറുകളെ ജീർണ്ണാവസ്ഥയിലേക്ക് നയിക്കുന്നതിലൂടെ കോശങ്ങളിൽ പുനർനിർമ്മാണം സാധ്യമാണ് എന്നാൽ മേല്പറഞ്ഞ ഫൈബ്രിലുകളെ നശിപ്പിക്കാതെ അവയെ വലിക്കുകയോ രൂപാന്തരം വരുത്തുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് കോശങ്ങളിൽ പുനർനിർമ്മാണം സാധ്യമാക്കുവാൻ കഴിയും ഒരൊറ്റ ഫൈബ്രിലുമായി ഇടപഴകുന്ന കോശത്തിന്റെ ഉദാഹരണം തന്നെയെടുക്കാം കോശത്തിന്റെ പ്രഭാവത്തിൽ ഈ കാണുന്ന പ്രത്യേക ദിശയിൽ ഫൈബ്രിലുകൾ വലിച്ചുനീട്ടപ്പെടുകയും ഈ കാരണത്താൽ അവയുടെ ഘടനയ്ക്ക് ഗണ്യമായ രൂപാന്തരം സംഭവിക്കുകയും ചെയ്യുന്നു ഒന്നുകിൽ ഫൈബ്രിലുകളിൽ ജീർണ്ണാവസ്ഥയുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവയുടെ ഘടനയിൽ രൂപഭേദം വരുത്തുന്നതിലൂടെയോ കോശങ്ങളിൽ പുനർനിർമ്മാണം സാധ്യമാകുന്നു എന്നതാണ് വസ്തുത ഇതിലൂടെ കോശങ്ങളും അവയുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സും വളരെയധികം ചലനാത്മകമായ ഒരു ക്രോസ്സ് ടോക്കിൽ ഏർപെടുന്നുണ്ട് ആയതിനാൽ കോശങ്ങൾ സ്വമേധയാ സ്രവിക്കുന്ന മെട്രിക്സിനെ അവയ്ക്ക് തന്നെ പുനർനിർമ്മിക്കാനാകും എല്ലാ കോശങ്ങളും മെട്രിക്സ് ഉത്പ്പാദിപ്പിക്കുന്നതിൽ പ്രാവീണ്യമുള്ളവരല്ല എന്നാൽ ഫൈബ്രോബ്ലാസ്റ് കോശങ്ങൾ ചില സ്മൂത്ത് മസിൽ സെല്ലുകൾ എന്നിവയ്ക്കെല്ലാം ധാരാളം അളവിൽ ECM പ്രോട്ടീനുകൾ സ്രവിക്കാൻ സാധിക്കും അതെ സമയം ക്യാൻസർ കോശങ്ങൾക്കാകട്ടെ അവയുടെ ആവശ്യത്തിനനുസരിച്ച് ECM നെ ജീർണ്ണാവസ്ഥയിലേക്ക് നയിക്കുവാനും പുനർനിർമ്മിക്കാനും കഴിയും ഇവിടെ കോശങ്ങൾ മെട്രിക്സ് നിർമ്മിക്കുകയും അവയിൽ നിർദ്ദിഷ്ട രൂപഭേദങ്ങൾ വരുത്തുകയും ചെയ്യുന്നു ഇവിടെ ഒരു ചലനാത്മകമായ ക്രോസ്സ് ടോക്ക് നടക്കുന്നുണ്ട് എന്ന് സാരം ഇനി നമുക്ക് ത്വക്കിൽ കാണപ്പെടുന്ന ടിഷ്യുവിന്റെ ഘടനയെ പറ്റി വിശദമായി ചർച്ച ചെയ്യാം ചർമ്മത്തിലെ കോശങ്ങൾ നിരന്തര പുനരുജ്ജീവനത്തിലൂടെ നവീകരിക്കപ്പെടുന്നവയാണ് അത്തരമൊരു കോശത്തിനെയാണ് ഞാൻ ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് എപ്പിത്തീലിയൽ കോശങ്ങളുടെ ഒരു പാളി കാണാവുന്നതാണ് ഞാൻ ഇതിനെ വരച്ച രീതിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്ന ചിത്രത്തിൽ എപ്പിത്തീലിയൽ കോശങ്ങളുടെ നിരവധി നിരകൾ നമുക്ക് കാണാവുന്നതാണ് ഇതിൽ വരച്ചത് പ്രകാരം ഇവിടെ കാണുന്ന കോശങ്ങളിൽ ലംബമായാണ് ന്യൂക്ലിയസ് സ്ഥിതിചെയ്യുന്നത് ഈ കാണുന്ന മെംബ്രേയ്നിനോട് ചേർന്നാണ് ഇവ വിന്യസിക്കുന്നത് ഇതിനപ്പുറം നമുക്ക് ECM മെട്രിക്സും ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളും കാണാവുന്നതാണ് അതായത് ഈ കാണുന്നത് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളാണ് ഇത് ECM മെട്രിക്സാണ് ഇവിടെ കാണുന്ന ഈ പ്രത്യേക പാളിയെ നമുക്ക് ബേസ്മെൻറ് മെംബ്രേയ്ൻ എന്ന് അഭിസംബോധന ചെയ്യാവുന്നതാണ് പുറമെ കാണുന്ന എപ്പിത്തീലിയൽ കോശങ്ങൾ അവിരാമം വിഭജിക്കപ്പെടുന്നവയാണ് ബേസ്മെൻറ് മെംബ്രേയ്നിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ അവയുടെ ന്യൂക്ലിയസിൽ ഗണ്യമായ രൂപഭേദം പ്രകടമാകുന്നുണ്ട് അതായത് ആരംഭത്തിൽ ലംബദിശയിൽ സ്ഥിതിചെയ്തിരുന്ന ഇവയുടെ ന്യൂക്ലിയസ് ഇപ്പോൾ തിരശ്ചീന ദിശയിലേക്ക് രൂപാന്തരപ്പെടുന്നു ഒടുവിൽ ഇവ പുറം പാളിക്കപ്പുറം ചത്തൊടുങ്ങുകയും ചെയ്യുന്നു ഈ പ്രക്രിയ ആവർത്തിച്ച് കൊണ്ടേയിരിക്കും വിഭജനത്തിലൂടെ ഉടലെടുക്കുന്ന പുതിയ കോശങ്ങൾ പാളിയിലേക്ക് ചേർന്ന് അവയെ മുകളിലേക്ക് തള്ളുന്നു ഈ സമയം പുറം പാളിയിലെ കോശങ്ങളിൽ ന്യൂക്ലിയസിന് ഗണ്യമായ രൂപഭേദം സംഭവിക്കുകയും ശേഷം അവയ്ക്ക് ക്ഷതം അനുഭവപ്പെടുകയും അവ ക്രമേണ നശിക്കുകയും ചെയ്യുന്നു മേല്പറഞ്ഞ പ്രക്രിയ സാധാരണഗതിയിൽ റീജെനെറേഷൻ അഥവാ പുനരുജ്ജീവനം എന്നാണ് അറിയപ്പെടുന്നത് ഈ കാണുന്ന ബേസ്മെൻറ് മെംബ്രേയ്ൻ ഫൈബ്രോബ്ലാസ്റ്റുകൾ അടങ്ങിയ എപ്പിത്തീലിയൽ കോശങ്ങളുടെ പാളിയെ വേർതിരിക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നുണ്ട് മേല്പറഞ്ഞ ബേസ്മെൻറ് മെംബ്രേയ്ൻ അഥവാ ബേസൽ ലാമിന എന്നത് 50 മുതൽ 200 നാനോമീറ്റർ ഘനമുള്ളതാണ് ഒട്ടുമിക്ക കോശങ്ങൾക്ക് ചുറ്റിലും ഈ പറഞ്ഞ ബേസ്മെൻറ് മെംബ്രേയ്ൻ നമുക്ക് കാണാവുന്നതാണ് ഉദാഹരണത്തിന് വിവിധയിനം പേശികളുടെ കോശങ്ങൾ നാഡീവ്യവസ്ഥയിലെ കോശങ്ങൾ രക്തധമനികളിൽ കാണപ്പെടുന്ന കൊഴുപ്പിന്റെ കോശങ്ങൾ ദഹന ശ്വസനേന്ദ്രിയങ്ങളുടെ ഉൾപാളികൾ എന്നിവയിൽ എല്ലാം നമുക്ക് ഇവ സദൃശ്യമാണ് യഥാർത്ഥത്തിൽ ECM പ്രോട്ടീനുകളുടെ അനവധി പാളികൾ ചേർന്നാണ് ബേസ്മെൻറ് മെംബ്രേയ്ൻ സജ്ജമാകുന്നത് അവയവത്തിനുള്ളിൽ സ്ഥിതിചെയ്യുന്ന വിവിധയിനം സംയോജിതകോശങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ധർമ്മമാണ് അവയ്ക്കുള്ളത് ഒരു അവയവത്തിന്റെ ഘടന നിർവചിക്കുന്നതിൽ ഇവ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇവ കോശങ്ങളുടെ അതിജീവനത്തിന് ഉതകുന്ന സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും അവയ്ക്ക് നിലയുറപ്പിക്കാൻ നിയതമായ മെക്കാനിക്കൽ പിന്തുണ നൽകുകയും ചെയ്യുന്നു മാത്രമല്ല ഇവർ കോശങ്ങൾക്ക് വിലങ്ങനെ വിന്യസിക്കാനുള്ള പ്രതലമായും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഭീമമായ ആകൃതിയുള്ള തന്മാത്രകളെയും മറ്റ് ശത്രുകോശങ്ങളുടെ അധിനിവേശവും ഗണ്യമായി പ്രതിരോധിക്കാൻ ഇവർ സജ്ജരാണ് എന്നതാണ് വസ്തുത മേല്പറഞ്ഞ പ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ പിഴവ് വന്നു ചേർന്നാൽ അത് കോശങ്ങളിൽ രോഗാവസ്ഥ ജനിക്കുന്നതിന് നിധാനമാകുന്നു ഈ കാണുന്ന വിവിധയിനം കോശങ്ങളെ ഇനം തിരിക്കലാണ് ഇവയുടെ പ്രധാനമായ ഉദ്ദേശം താഴെ പറയുന്ന മൂന്ന് സന്ദർഭങ്ങളിൽ മാത്രമാണ് മേല്പറഞ്ഞ മെംബ്രേയ്നിന് പിളർപ്പ് സംഭവിക്കുന്നത് ഒന്ന് ശാരീരിക വികാസത്തിന്റെ ഭാഗമായി വിവിധതരം അവയങ്ങൾ വിപുലീകരിക്കുമ്പോൾ രണ്ട് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഇമ്മ്യൂൺ കോശങ്ങൾക്ക് ശരീരത്തിന്റെ നാനാഭിത്തികളും മറികടന്ന് നിരീക്ഷണം നടത്തേണ്ട ആവശ്യം ഉയരുമ്പോൾ മൂന്നാമത്തെ സാഹചര്യമെന്നത് ക്യാൻസർ കോശങ്ങളുടെ അധിനിവേശം സംഭവിക്കുമ്പോഴാണ് മേല്പറഞ്ഞ സന്ദർഭം അല്പം ഗൌരവമേറിയ ഒരു അവസ്ഥയാണ് ഇവിടെ എപ്പിത്തീലിയൽ കോശങ്ങൾക്ക് വിഭജനം നടക്കുമ്പോൾ ഉണ്ടാകേണ്ട സ്വാഭാവികമായ സംയമനം നഷ്ടപ്പെടുകയും അവ ബേസ്മെൻറ് മെംബ്രേയ്നിനെ മറികടന്ന് ശരീരത്തിന്റെ നാനാദിക്കുകളിൽ ചെന്ന് അടിയുകയും ചെയ്യുന്നു ഇങ്ങനെ അവ നമ്മിൽ പലർക്കും കാണുന്ന ബിനൈൻ ട്യൂമറുകൾക്ക് ആരംഭം കുറിക്കുന്നു എന്നാൽ ചില കോശങ്ങളുണ്ട് അവയ്ക്ക് ക്രമാധീതമായി വിഭജനം നടത്താൻ സാധിക്കും എന്നാൽ ബേസ്മെൻറ് മെംബ്രേയ്നിനെ മറികടക്കാനുള്ള കഴിവുണ്ടാകില്ല അത്തരം സാഹചര്യങ്ങളിലാണ് ബിനൈൻ ട്യൂമറുകൾ ഉടലെടുക്കുന്നത് എന്നാൽ ഇവയ്ക്ക് ബേസ്മെൻറ് മെംബ്രേയ്ൻ എന്ന ഭിത്തിയെ മറികടക്കാനായാൽ അത് അതീവ ഗുരുതരമായ മാലിഗ്നന്റ് ക്യാൻസറായി പടരുന്നു ചുരുക്കിപറഞ്ഞാൽ ബേസ്മെൻറ് മെംബ്രേയ്നിലൂടെ തുരന്ന് കയറാൻ സാധിക്കുന്ന വളരെയധികം വിഭിന്നമായ സവിശേഷതകളുള്ളവയാണ് മേല്പറഞ്ഞ ക്യാൻസർ കോശങ്ങൾ മറ്റൊരു പ്രധാന കാര്യമെന്തെന്നാൽ ഈ കാണുന്ന മെംബ്രേയ്ൻ നനുത്ത ഒന്നാണ് ആയതിനാൽ അവയ്ക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള കോശങ്ങൾക്ക് പരസ്പരം സന്ദേശങ്ങൾ കൈമാറുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നത് തീർത്തും കൌതുകകരമായ ഒരു വസ്തുതയാണ് അക്ഷരാർത്ഥത്തിൽ മേല്പറഞ്ഞ ബേസ്മെൻറ് മെംബ്രേയ്ൻ തീർത്തും സുതാര്യമാണ് ഇതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ലഭ്യമാകുവാനായി നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം സ്ലൈഡ് ടൈം 1903 ൽ കാണുന്നത് പോലെ ഒരു നിശ്ചിത ഘനമുള്ള ഹൈഡ്രജൻ ജെൽ രൂപപ്പെടുത്തുകയും അതിന് മുകളിലായി നമ്മൾ ഏതാനും ചില കോശങ്ങൾ പ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു പ്രതലത്തിന്റെ സ്റ്റിഫ്നെസ്സിന് ആനുപാതികമായി കോശങ്ങളിൽ പ്രകടമാകുന്ന വ്യാപനത്തിന്റെ ശരാശരി നിരക്ക് നമുക്ക് കണക്കാക്കാവുന്നതാണ് വിവിധയിനം കോശങ്ങളുടെ വ്യാപനത്തിന്റെ നിരക്കാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ മേല്പറഞ്ഞ വ്യാപനത്തിന്റെ തോത് ഗണ്യമായി വർദ്ധിക്കുകയും ജെല്ലിന്റെ സ്റ്റിഫ്നെസ്സ് ഈ കാണുന്ന നിരക്കിലെത്തുമ്പോൾ കോശങ്ങളുടെ വ്യാപനം പതിയെ പൂരിതമാകുകയും ചെയ്യുന്നു ദൃഢതയുള്ള ഒരു ജെല്ലിൽ പ്രകടമാകുന്ന കോശങ്ങളുടെ സ്പ്രെഡിങ് പ്രൊഫൈലാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത് ഈ കാണുന്ന ജെൽ 70 മൈക്രോൺ ഘനമുള്ളതും ദൃഢതയുള്ളതുമാണ് കോശങ്ങൾക്ക് ഇവയ്ക്കുമേൽ നിലയുറപ്പിക്കാൻ വളരെയേറെ പ്രയാസമാണ് എന്നാൽ നാം ജെല്ലിനെ നേർത്തതാക്കി മാറ്റുകയാണെങ്കിൽ കോശങ്ങൾ പ്രതലത്തിന്റെയും അവയ്ക്ക് മുകളിൽ നിലയുറപ്പിച്ച ജെല്ലിന്റെയും ദൃഢതയുടെ ശരാശരി നിരക്കാണ് കണക്കിലെടുക്കുന്നത് ജെൽ നേർത്തതാകുമ്പോൾ അതായത് മൃദുവായ പ്രതലത്തിൽ നിലയുറപ്പിച്ചതാകുമ്പോൾ കോശങ്ങൾക്ക് ദൃഢമായ ജെല്ലിൽ സാധ്യമാകുന്നതിനേക്കാൾ ഉയർന്ന തോതിലുള്ള വ്യാപനം ഇവയ്ക്കുമേൽ കാഴ്ചവെക്കുവാൻ സാധിക്കും സുദൃഢമായ പ്രതലങ്ങളിൽ അവ ഉരുണ്ട ആകൃതി കൈകൊള്ളുന്നതായി നമുക്ക് കാണാനാകും എന്നാൽ ജെല്ലിന്റെ ഘനം അല്പാല്പമായി കുറവ് ചെയ്യുകയാണെങ്കിൽ കോശങ്ങൾ അതിവേഗം ഇവയ്ക്ക് മേൽ വ്യാപിക്കുന്നതായി നമുക്ക് വ്യക്തമാകുന്നു ഞാനിവിടെ ഒരു തിരശ്ചീന രേഖ വരക്കുകയാണ് വെറും 500Pa മാത്രം സ്റ്റിഫ്നെസുള്ള ഒരു ജെല്ലിന് സമാനമായാണ് 3kPa അധിക ദൃഢതയുള്ള ജെല്ലിൽ കോശങ്ങൾ വ്യാപിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചത് പോലെ കോശങ്ങൾക്ക് പ്രതലത്തിന്റെ സ്വഭാവ സവിശേഷതകൾ മാത്രമല്ല മറിച്ച് സ്റ്റിഫ്നെസ്സിന്റെ നിരക്കിനെ പറ്റിയും കൃത്യമായ ധാരണയുണ്ട് എന്ന് സാരം രണ്ട് വശങ്ങളിലുള്ള ഈ ജെല്ലുകൾക്കിടയിൽ ഞാൻ ദൃഢമായ എന്തെങ്കിലും വസ്തു ഇറക്കിവെച്ചിട്ടുണ്ടെന്ന് കരുതുക ഇവിടെ നിലയുറപ്പിച്ച ഈ കാണുന്ന കോശത്തിന് ഘനമുള്ള ഒരു വസ്തുവിന്റെ സാന്നിധ്യം തീർച്ചയായും തിരിച്ചറിയാനാകും അക്ഷരാർത്ഥത്തിൽ ഈ ബേസ്മെൻറ് മെംബ്രേയ്ൻ തീർത്തും സുതാര്യവും ഘനം കുറവുള്ളതുമായതിനാലാണിത് സംഭവിക്കുന്നത് നിങ്ങൾ പ്രയോഗിക്കുന്ന ഫോഴ്സുകൾ ബേസ്മെൻറ് മെംബ്രേയ്ൻ മറികടന്ന് മറുവശത്തേക്ക് പകരുന്നുണ്ട് ഇതിലൂടെ ഒരു ജെല്ലിന്റെ ഘനം പ്രായോഗികതലത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും കോശങ്ങളുടെ ബേസ്മെൻറ് മെംബ്രേയ്ൻ നേർത്തതായത് കൊണ്ട് മാത്രമാണ് അവയ്ക്ക് മേല്പറഞ്ഞ രീതിയിൽ ഫോഴ്സുകളെ കടത്തിവിടാൻ സാധിക്കുന്നത് പ്രസ്തുത ലെക്ച്ചറിൽ കോശങ്ങളുടെ സ്വഭാവ സവിശേഷതകളെയും പ്രവർത്തന മികവിനെയും ഗണ്യമായി നിയന്ത്രിക്കുന്ന ECM പ്രോട്ടീനുകളെന്ന സുപ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് നാം ഇനി വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊളാജെനിലാണ് മനുഷ്യശരീരത്തിൽ ഏറ്റവും സമൃദ്ധമായി കാണപ്പെടുന്ന നാരുകളുള്ള ECM പ്രോട്ടീനാണ് കൊളാജെൻ ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളും സ്മൂത്ത് മസിൽ കോശങ്ങളും എപ്പിത്തീലിയൽ കോശങ്ങളും ഉത്പാദിപ്പിക്കുന്ന ഇവയുടെ ടെൻസൈൽ സ്ട്രെങ്ത് അതിശക്തമാണ് മനുഷ്യശരീരത്തിൽ മാത്രം ഏതാണ്ട് 27 വ്യത്യസ്തയിനം കൊളാജെനുകൾ നിലവിലുണ്ട് ഇനി നമുക്ക് കൊളാജെന്റെ ഘടനപരമായ സവിശേഷതകളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം ഇവ പോളിപെപ്റ്റൈഡ് ശൃംഖലകളെ ക്രമീകരിക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു ട്രിപ്പിൾ ഹെലിക്സിന്റെ ഘടനയെന്നത് മൂന്ന് ചരടുകൾ പരസ്പരം ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന മാതൃകയിലാണ് മേല്പറഞ്ഞ ഘടനയ്ക്ക് നിയതമായ പിരിയോഡോസിറ്റിയുണ്ട് ഈ കാണുന്ന ബാൻഡഡ് സ്ട്രക്ച്ചറുകൾ തമ്മിലുള്ള വിടവെന്നത് 67 നാനോമീറ്ററാണ് ഇതിൽ തന്നെ ധാരാളം വ്യതിയാനങ്ങൾ സാധ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ മനുഷ്യശരീരത്തിൽ മാത്രം ഏതാണ്ട് 27 വ്യത്യസ്ത തരം കൊളാജെനുകൾ ഉണ്ട് അതിൽ ചിലത് ഫൈബ്രിലാർ പ്രകൃതമുള്ളവയാണ് ഇവയെ നാം ഫൈബ്രിലാർ കൊളാജെൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് കൊളാജെൻ I II III എന്നിവ ഫൈബ്രിൽ കൊളാജെനുകളാണ് വ്യക്തിഗത കൊളാജെൻ ഫൈബറുകളിൽ നിന്ന് ഉടലെടുക്കുന്ന ദൃഢമായ ഈ നാരുകളെ കൊവാലെന്റ് ക്രോസ്സ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ബലിഷ്ഠമാക്കാവുന്നതാണ് മനുഷ്യശരീരത്തിൽ കാണപ്പെടുന്ന ഭൂരിഭാഗവും അഥവാ 80 90 ശതമാനം കൊളാജെനും ഫൈബ്രിലാറാണ് എന്നത് കൌതുകകരമായ ഒരു വസ്തുതയാണ് ടിഷ്യൂകളിൽ കൊളാജെൻ വിതരണം ചെയ്യപ്പെടുന്ന ഈ രീതി ഒന്ന് നോക്കുക ത്വക്ക് അസ്ഥി ടെൻഡൻ ലിഗമെന്റുകൾ എന്നിവയിൽ കൊളാജെൻ ഫൈബ്രിലുകളാണ് കാണപ്പെടുന്നത് കാർട്ടിലേജ് വിട്രിയസ് ഹ്യൂമർ പോലുള്ളവയിൽ കൊളാജെൻ II വും ചർമ്മം പേശി രക്തം എന്നിവയിൽ കൊളാജെൻ III യുമാണ് കാണപ്പെടുന്നത് ഗണ്യമായ തോതിൽ ശക്തി പ്രയോഗിക്കപ്പെടുന്ന സംയോജിത കോശങ്ങളിലാണ് ഇവ ധാരാളമായി പ്രത്യക്ഷപ്പെടുന്നത് ടെൻഡൻ ലിഗമെന്റ് എന്നിവ അവയവങ്ങൾക്ക് ഗൌരവമായ അളവിൽ ടെൻസൈൽ സ്ട്രെങ്ത് പ്രധാനം ചെയ്യുന്നവയാണ് നമുക്ക് ഇവയെ കുറിച്ച് വിശദമായൊരു പഠനം നടത്താം കൊളാജെൻ I ന് പുറമെ കൊളാജെൻ IV എന്നത് ബേസ്മെൻറ് മെംബ്രേയ്നിന്റെ ഒരു സുപ്രധാന ഘടകമാണ് അനേകം ടെട്രാമെർ യൂണിറ്റുകൾ കൂടിചേർന്ന് അവയ്ക്കൊപ്പം ഏതാനും ചില തന്മാത്രകൾ കൂടി സംയോജിക്കുമ്പോഴാണ് മേൽകാണുന്ന രീതിയിലുള്ള ഒരു വല പോലുള്ള ആകൃതി ഇവയ്ക്ക് ലഭ്യമാകുന്നത് പ്രസ്തുത ലെക്ച്ചർ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് കോശങ്ങളുടെ സ്വഭാവഘടനയെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നാം വളരെ വിശദമായി തന്നെ പഠിച്ച് കഴിഞ്ഞു അടുത്ത ലെക്ച്ചറിൽ മെട്രിക്സിന്റെ ഗുണഗണങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ECM പ്രോട്ടീനുകളുടെ സാന്ദ്രത അല്ലെങ്കിൽ അവയുടെ ഘടനയ്ക്കുള്ള പങ്കിനെ പറ്റിയും ചലനാത്മകമായ ശക്തികളുടെ പ്രഭാവത്തിൽ മെട്രിക്സ് നോൺ ലീനിയർ ഇലാസ്റ്റിസിറ്റി എങ്ങനെ കാഴ്ച്ചവെക്കുന്നു എന്നും നമ്മൾ പഠനം നടത്തുന്നതായിരിക്കും